എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഐഐടി കാൺപൂരിൽ നിന്നുള്ള എൻപിടിഇഎൽ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം

നമ്മൾ അഞ്ചാം ആഴ്ച മൊഡ്യൂൾ 2 ലാണ് ഇത് ഈ കോഴ്സിന്റെ 26 ാമത്തെ പ്രഭാഷണമാണ് ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ നമ്മൾ കോഴ്സിന്റെ പകുതി കടന്നു അടുത്ത പകുതിയിലാണ് ഇതിനകം തന്നെ നമ്മൾ അടുത്ത പകുതിയുടെ രണ്ടാം മൊഡ്യൂളിലാണ് കോഴ്സിന്റെ രണ്ടാം പകുതിയിൽ ഞാൻ യഥാർത്ഥത്തിൽ സാങ്കേതികവിദ്യയും ആശയവിനിമയവുമായി ബന്ധപ്പെട്ട വളരെ രസകരവും ഏറ്റവും പ്രസക്തവുമായ മൊഡ്യൂളിൽ നിന്നാണ് ആരംഭിച്ചത് അതിനാൽ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ അത് ആരംഭിച്ചു ഇതിൽ പ്രത്യേകിച്ചും മൊബൈൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം സ്വാധീനം ദുരുപയോഗം ആഘാതം അത് നിങ്ങൾക്ക് എങ്ങനെ ഒരുതരം മൊബൈൽ വ്യക്തിത്വം നൽകുന്നു എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ഞാൻ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് വേഗത്തിൽ തിരിച്ചെടുക്കാം ആശയവിനിമയത്തിൽ സാങ്കേതികവിദ്യയുടെ സ്വാധീനത്തെക്കുറിച്ച് ഞാൻ ഈ ആഴ്ച മുൻ പ്രഭാഷണത്തിൽ നിങ്ങളോട് പറഞ്ഞു അതിനാൽ നമ്മൾ ഇൻഫർമേഷൻ യുഗത്തിലാണ് ജീവിക്കുന്നത് തുടർന്ന് എല്ലാ ഹൈടെക് സാങ്കേതികവിദ്യയും നൽകി നമുക്ക് മെച്ചപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടെങ്കിലും അതേ സമയം അത് നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല ആ സന്ദർഭത്തിൽ ഡോണ ഹറവേ നിർണ്ണയിക്കാൻ ഉപയോഗിച്ച പുതിയ പദം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇതിനിടയിൽ നമ്മൾ കുടുങ്ങുന്ന തരത്തിലുള്ള വ്യക്തിത്വത്തെ സൈബോർഗുകൾ എന്ന് വിളിക്കുന്നു ഇതിനർത്ഥം നമ്മൾ ഭാഗിക യന്ത്രവും ഭാഗിക മനുഷ്യരുമാണെന്ന് സൂചിപ്പിക്കുന്ന സൈബർനെറ്റിക് ജീവികൾ എന്നാണ് ബയോട്ടിക് മെക്കാനിക്കൽ ഘടകങ്ങൾ തമ്മിലുള്ള മങ്ങിയ ഇന്റർഫേസ് കാരണം നമുക്ക് ഈ മനുഷ്യ സ്വത്വം ഭാഗികമായി നഷ്ടപ്പെട്ടു ജീവശാസ്ത്രപരവും യഥാർത്ഥത്തിൽ സാങ്കേതികവുമായവ തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല അതിനാൽ നമ്മൾ ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നു മനുഷ്യ ഫാക്കൽറ്റിയുടെ എല്ലാ മാധ്യമ വിപുലീകരണങ്ങളെയും യഥാർത്ഥമായി കണക്കാക്കിക്കൊണ്ട് നാം സൈബോർഗുകളായി മാറി സാങ്കേതിക ഘടകങ്ങൾ മനുഷ്യ സ്വത്വത്തെ നിർവചിക്കുകയും നൽകുകയും ചെയ്യുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഗാഡ്ജെറ്റുകൾ ടാബ്ലെറ്റ് ലാപ്ടോപ്പ് നിങ്ങളുടെ കൈവശമുള്ള കാറുകൾ തുടങ്ങിയ എല്ലാ സാങ്കേതിക ഇനങ്ങളുടെയും ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ ഏതുതരം വ്യക്തിയാണ് എത്ര സമ്പന്നനാണ് എത്ര ശക്തനാണ് എത്ര ലളിതമാണ് എത്ര സംതൃപ്തനാണ് എത്ര സന്തുഷ്ടനാണ് എത്ര ദുരിതത്തിലാണ് അതെല്ലാം പറയാൻ അവർ ശ്രമിക്കുന്നു ഈ ഗാഡ്ജെറ്റുകൾ നിങ്ങളെ നിർവചിക്കണമെന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നു പക്ഷേ ഇത് വിപരീതമായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾ ആന്തരിക പ്രചോദനങ്ങളും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ആന്തരിക കാതൽ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ബാഹ്യ പെരിഫറലുകൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നില്ല നിങ്ങളുടെ ചിന്തകളെയും ഇത് ബാധിക്കുന്നില്ല അത് മനസ്സിൽ വയ്ക്കുക അതിനാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കാറല്ല നിങ്ങളെ നിർവചിക്കുന്നത് മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ യഥാർത്ഥത്തിൽ നിർവചിക്കുകയും സവിശേഷമാക്കുകയും ചെയ്യുന്നു അതിനാൽ ഏറ്റവും പ്രധാനമായി ആ ചിന്തയെ നിങ്ങൾ മാറ്റേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ സാങ്കേതികവിദ്യ സ്വാധീനിക്കുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾ മാറ്റണം യന്ത്രത്തിന് മനുഷ്യ പരിഗണന നൽകുകയും മനുഷ്യനെ ഒരു യന്ത്രം പോലെ പരിഗണിക്കുകയും ചെയ്യുന്നു ആ സന്ദർഭത്തെ ആസ്പതമാക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞു മകന്റെ വിരലുകൾ വേദനിപ്പിച്ച പിതാവിൻറെ കഥ പിന്നീട് മകൻ തന്നെ ശരിക്കും സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു നഷ്ടപ്പെട്ട വിരലുകളായ ബയോട്ടിക് ഘടകങ്ങൾ ഒരിക്കലും മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല അതേസമയം കാറിൽ മകൻ മൂലമുണ്ടായ പോറൽ ഉടൻ നീക്കം ചെയ്യാൻ കഴിയും ഇതിനകം സംഭവിച്ച സൈബർ നേട്ട മാറ്റം നമ്മെ മാനസികമായും ശാരീരികമായും ബാധിക്കുന്നു ഈ ചുറ്റുപാടിൽ ഈ പശ്ചാത്തലത്തിൽ മൂന്ന് പ്രധാന കീവേഡുകൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഒന്ന് നിയന്ത്രണവും മറ്റൊന്ന് നേട്ടവും മൂന്നാമത്തേത് തിരഞ്ഞെടുപ്പുമാണ് ആരാണ് സാങ്കേതികവിദ്യയെ നിയന്ത്രിക്കുന്നത് ആരാണ് നൽകുന്നത് തുടങ്ങിയ വളരെ സ്വയം അന്വേഷിക്കുന്ന ചോദ്യങ്ങൾ നാം ചോദിക്കേണ്ടതുണ്ട് സാങ്കേതികവിദ്യയിലേക്ക് നമ്മെ നയിക്കുന്ന സാങ്കേതികവിദ്യയിലേക്കുള്ള ദിശ നമ്മൾ ശരിക്കും നിയന്ത്രിക്കുന്നുണ്ടോ നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക ഉപകരണങ്ങൾ അല്ലെങ്കിൽ അവ ഉപയോഗിച്ച് ആരെങ്കിലും നമ്മെ നിയന്ത്രിക്കുന്നുണ്ടോ അതിൽ നിന്നുള്ള നേട്ടങ്ങൾ നമുക്ക് ശരിക്കും പ്രയോജനം ലഭിക്കുന്നുണ്ടോ അതോ മറ്റാർക്കെങ്കിലും പ്രയോജനം ലഭിക്കുന്നുണ്ടോ ചില സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങുന്നതിലും കൈവശം വയ്ക്കുന്നതിലും സ്വന്തമാക്കാതിരിക്കുന്നതിലും ഒരു ചോയ്സ് ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കായി ഇവ തിരഞ്ഞെടുക്കുന്നുണ്ടോ അതിനാൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവയാണ് ഉത്തരങ്ങൾ നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തും അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം മാറ്റാൻ കഴിയും ഇപ്പോൾ ഇതിൽ നമുക്ക് മൊബൈൽ സെൽ ഫോൺ സാങ്കേതികവിദ്യയുടെ സ്വാധീനത്തിലും അത് എങ്ങനെ എന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അത് എങ്ങനെ മാറ്റുന്നു അത് നമ്മെ വളരെയധികം മാറ്റിമറിച്ചു അതിൽ നിന്ന് മനുഷ്യരാശിയെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും ആദ്യം നിങ്ങൾ മൊബൈൽ ഫോണുകൾ യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് എന്തിനുവേണ്ടിയാണെന്ന് നോക്കുകയാണെങ്കിൽ സ്ഥിരതയ്ക്കെതിരെ ചലനാത്മകത നൽകുക എന്നതാണ് ഉദ്ദേശ്യം അതിനാൽ ലാൻഡ് ഫോൺ യഥാർത്ഥത്തിൽ ലാൻഡ് കണക്റ്റഡ് ഫോണാണ് അതേസമയം ഈ സെൽ ഫോൺ റേഡിയോ ഉപയോഗിക്കുന്നു ശബ്ദ സിഗ്നലുകളെ വൈദ്യുത സിഗ്നലുകളായി പരിവർത്തനം ചെയ്യുന്ന ടെലിഫോണിൽ നിന്ന് വ്യത്യസ്തമായി തരംഗങ്ങൾ വീണ്ടും അത് അതേ പ്രക്രിയയെ വിപരീതമാക്കുന്നു ഇവിടെ അത് സിഗ്നലുകൾ അയയ്ക്കാൻ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അത് ചലിപ്പിക്കാവുന്നതാക്കാൻ കഴിയും അതിനാൽ വീട്ടിൽ തന്നെ തുടരുകയും കോളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിനുപകരം നിങ്ങൾക്ക് എവിടെയും ആകാം തുടർന്ന് നിങ്ങൾക്ക് വിദൂരമായ ഒരു സ്ഥലത്ത് നിന്ന് പോലും ആരോടെങ്കിലും സംസാരിക്കാം എല്ലായ്പ്പോഴും പോകുന്നതിനും നിൽക്കുന്നതിനും പകരം സമയം ലാഭിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശ്യം എവിടെയെങ്കിലും പുറത്ത് നിൽക്കുകയും തുടർന്ന് ഒരു ക്യൂവിൽ നിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ആരെയെങ്കിലും വിളിക്കാം നിങ്ങൾ ഒരു അപകടത്തിൽ പെടുന്നത് പോലെയുള്ള അടിയന്തിര സാഹചര്യങ്ങളിൽ സഹായിക്കുക എന്നതാണ് മറ്റൊരു ഉദ്ദേശ്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള ഹൃദയാഘാതം അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തരാവസ്ഥ അനുഭവിക്കുന്നു ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ വിളിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന ആരെയെങ്കിലും വിളിക്കണം മറ്റൊരു രസകരമായ ഘടകം നിങ്ങൾക്ക് ആളുകളുമായി തൽക്ഷണം ബന്ധപ്പെടാൻ കഴിയും എന്നതാണ് പോയി ഒരു ഫോൺ വിളിക്കാൻ ഒരു സമയം നിശ്ചയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ചെലവഴിക്കുന്ന സമയം പോലും ലാൻഡ് ലൈനിലേക്ക് അതിനാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ആരെയെങ്കിലും വിളിക്കാം മൊത്തത്തിൽ ഇത് മനുഷ്യ സമ്പർക്കം നിലനിർത്താനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് ഈ മൊബൈൽ ഫോൺ ശരിക്കും ഈ ഉദ്ദേശ്യം നിറവേറ്റുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ സെൽ ഫോണുകൾ യഥാർത്ഥത്തിൽ സ്മാർട്ട് ഫോണുകളുടെ യഥാർത്ഥ ഉദ്ദേശ്യത്തിൽ നിന്ന് മാറി ഈ ദിവസങ്ങളിൽ നമ്മുടെ കൈവശമുള്ളവയ്ക്ക് ഇമെയിൽ പരിശോധിക്കാം ഗെയിമുകൾ കളിക്കുക സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുക പാട്ടുകൾ കേൾക്കുക സിനിമകൾ കാണുക ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയയ്ക്കുക തുടങ്ങിയവ അതിനാൽ അത് പോലും ഒരു ക്യാമറയുടെ പ്രവർത്തനം നടത്തുന്നു എന്നിട്ട് ഇന്ന് അത് അങ്ങനെ പുറത്തുവരുന്നു സ്മാർട്ട് ഫോണുകളിലെ സാങ്കേതികവിദ്യയിലെ സങ്കൽപ്പിക്കാനാവാത്ത പുരോഗതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിരവധി ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ വിദൂരമായി ശബ്ദത്തിലൂടെ ആശയവിനിമയം സുഗമമാക്കുക എന്ന യഥാർത്ഥ ഉദ്ദേശ്യം മറന്നുപോകുന്നു അതിനാൽ ഇത് തീർച്ചയായും മനുഷ്യരാശിയുടെ നാശത്തിന് കാരണമാകുന്നു അത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിനുമുമ്പ് നമുക്ക് നിങ്ങളെ ഒരു ലളിതമായ പരീക്ഷണത്തിലേക്ക് എത്തിക്കാം അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും തുടർന്ന് ഉത്തരം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുക ഉത്തരം യഥാർത്ഥത്തിൽ ആവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് നിങ്ങൾ എത്രത്തോളം അതെ അല്ലെങ്കിൽ എത്ര ശക്തമായി പറയുന്നു എന്നതാണ് നിങ്ങൾ ഇല്ല എന്ന് പറയുന്നു നിങ്ങൾ എത്ര ശക്തമായി സമ്മതിക്കുന്നു ഈ ഫോണുകളോട് നിങ്ങൾ എത്ര ശക്തമായി വിയോജിക്കുന്നു ഇപ്പോൾ നിങ്ങൾ മോബാർക്കുകളായി മാറിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് നിങ്ങളോട് പറയും ഞാൻ കളിക്കുകയാണ് സൈബോർഗുകളുടെ കാര്യത്തിൽ ഡോണ ഹാരവേ ഉപയോഗിക്കുന്ന പദം മൊബാർക്കുകൾ നിങ്ങൾ സൈബർനെറ്റിക് ജീവികളെപ്പോലെ ചലനാത്മക ജീവികളായി മാറിയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമുക്ക് പരീക്ഷിക്കാൻ കഴിയുന്ന ചില ചോദ്യങ്ങളാണിവ തുടർന്ന് നിങ്ങൾ ഇതിന് കഴിയുന്നത്ര സത്യസന്ധമായി ഉത്തരം നൽകാൻ ശ്രമിക്കുക നിങ്ങൾ മൊബൈൽ കയ്യിലാക്കി ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നുണ്ടോ അതിനാൽ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ പാട്ടുകൾ കേൾക്കുകയോ ശാന്തമായ സംഗീതം കേൾക്കുകയോ ഉറങ്ങുന്നതിനുമുമ്പ് സിനിമ കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്നു എന്നാൽ ഉറങ്ങുന്നതിനുമുമ്പ് നിങ്ങൾക്ക് ഈ മൊബൈൽ ആവശ്യമാണ് എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾ ഉണരുകയാണോ അതായത് മൊബൈലാണ് നിങ്ങളെ ഉണർത്തുന്നത് നിങ്ങൾ എഴുന്നേറ്റയുടനെ ആദ്യം നിങ്ങളുടെ മൊബൈൽ കാണാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ അവസാനമായി കാണുന്നതും രാവിലെ ആദ്യം കാണുന്നതും അതാണ് നിങ്ങൾ എല്ലായ്പ്പോഴും മൊബൈൽ കയ്യിൽ കരുതുന്നുണ്ടോ മൊബൈലിൽ നിന്ന് നിങ്ങൾ സ്വയം മോചനം നേടുന്ന ഒരു സമയമുണ്ടോ അതിനാൽ നടക്കുമ്പോൾ ചില ആളുകൾ മൊബൈൽ വീട്ടിൽ ഉപേക്ഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചില മൊബൈൽ ഫ്രീ മണിക്കൂറുകൾ ഉണ്ടോ അവർ നടക്കാൻ പോകുമ്പോൾ മൊബൈൽ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ചില ആളുകൾ ക്ഷേത്രത്തിലോ മാസ്കിലോ പള്ളിയിലോ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴോ ലളിതമായ ധ്യാനത്തിനോ യോഗ പോലുള്ള സെഷനുകൾക്കോ പോകുമ്പോഴോ അവർ വീണ്ടും മൊബൈലുകൾ വീട്ടിൽ ഉപേക്ഷിക്കുന്നു അതിനാൽ നിങ്ങൾ ചിലപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് കളിക്കുമ്പോഴോ സ്വതന്ത്രരാണോ അതിനാൽ നിങ്ങൾ മൊബൈൽ വീട്ടിൽ ഉപേക്ഷിച്ച് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിനും നിങ്ങളുടെ സ്വന്തം മാനസികാരോഗ്യത്തിനും വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണോ ഇത് നിങ്ങൾ കുറച്ച് ഒഴിവു സമയം നൽകുന്നുണ്ടോ നിങ്ങൾ റിസ്റ്റ് വാച്ച് ധരിക്കുന്നത് നിർത്തിയോ നിങ്ങൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമാണിത് അതിനാൽ പലർക്കും ഈ ശീലം പൂർണ്ണമായും നഷ്ടപ്പെട്ടു വാസ്തവത്തിൽ അവർ റിസ്റ്റ് വാച്ച് ധരിക്കേണ്ടതില്ലെന്നും സമയം പരിശോധിക്കാൻ നിങ്ങൾ മൊബൈൽ ഫോൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂവെന്നും അവർ കരുതുന്നു ഒരു മ്യൂസിക് പ്ലെയറിൽ നിന്ന് സംഗീതം കേൾക്കുന്നത് നിങ്ങൾ നിർത്തിയിട്ടുണ്ടോ അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരം കാസറ്റ് പ്ലെയർ ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു തുടർന്ന് വീണ്ടും ഡിവിഡി പ്ലെയറും തുടർന്ന് സിഡി പ്ലെയറും തുടർന്ന് സൌണ്ട് സ്പീക്കറുകൾ ഘടിപ്പിച്ച മ്യൂസിക്കൽ സിസ്റ്റമുള്ള എല്ലാത്തരം പ്ലെയറുകളും പോലെ ഇപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കുകയാണോ അതോ നിങ്ങൾ അത് നിർത്തുകയാണോ തുടർന്ന് നിങ്ങളുടെ മൊബൈലിലൂടെ മാത്രം സംഗീതം കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ടെലിവിഷനിൽ വാർത്തകൾ കാണുന്നത് നിർത്തിയോ അതിനാൽ നിങ്ങൾ ചില ആപ്ലിക്കേഷനുകൾ ഇട്ടിട്ടുണ്ട് തുടർന്ന് ടെലിവിഷനിലെ വാർത്തകൾ പരിശോധിക്കാൻ നിങ്ങൾ ആപ്ലിക്കേഷനുകൾ മാത്രം ഉപയോഗിക്കുന്നു എന്നിട്ട് നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത് നിർത്തി അതിനാൽ നിങ്ങൾ നിങ്ങളുടെ മേശയിൽ നിന്ന് കാൽക്കുലേറ്റർ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കാൽക്കുലേറ്റർ വാങ്ങിയിട്ടില്ല കാരണം നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് ഒരു ആപ്പ് ഉപയോഗിക്കാമെന്നും അത് പരിശോധിക്കാൻ ഉപയോഗിക്കാമെന്നും നിങ്ങൾക്കറിയാം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട മറ്റൊരു രസകരമായ കാര്യം നിങ്ങൾ അഡ്രസ് ബുക്ക് ഫോൺ ബുക്ക് എന്നിവ ഉപയോഗിക്കുന്നത് നിർത്തിയോ എന്നതാണ് അതിനാൽ വിലാസ നോട്ട്ബുക്കിൽ വിലാസങ്ങൾ പരിപാലിക്കുന്നതോ മുൻവശത്ത് ഫോൺ നമ്പറുകൾ ഉള്ളതോ ആയ സമയങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സംഭരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതിനാൽ ചില പ്രധാന നമ്പറുകൾ പോലും രേഖപ്പെടുത്തുന്നത് നിങ്ങൾ നിർത്തിയിട്ടുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കണക്റ്റുചെയ്യാൻ കഴിയുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ടെന്നും അത് നെറ്റിൽ ഇടാമെന്നും നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നില്ല അതിനാൽ ഒരു നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുന്ന ഈ ശീലം നിങ്ങൾ അവസാനിപ്പിച്ചു പ്രധാനപ്പെട്ട ഫോൺ നമ്പറുകൾ പോലും നിങ്ങൾ ഓർക്കുന്നത് നിർത്തിയിട്ടുണ്ടോ അതിനാൽ നമ്മൾ 4050 ഫോൺ നമ്പറുകൾ ഓർമ്മിപ്പിച്ചിരുന്ന സമയങ്ങൾ ഓർക്കുക പിന്നീട് അത് 3020 ആയി തുടർന്ന് കുറഞ്ഞത് 10 പ്രധാന ഫോൺ നമ്പറുകളെങ്കിലും അതിനാൽ എത്ര പ്രധാന ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയും കുറഞ്ഞത് നിങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളെങ്കിലും നിങ്ങളുടെ സ്വന്തം ബോസ് പ്രധാനപ്പെട്ട എമർജൻസി നമ്പറുകൾ മൊബൈൽ നമ്പറുകൾ നിങ്ങളുടെ ഡോക്ടറുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ നമ്പർ എന്താണെന്ന് ആരോടെങ്കിലും പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ നിങ്ങളുടെ നമ്പർ പരിശോധിക്കേണ്ട തരത്തിലുള്ള വ്യക്തിയാണോ നിങ്ങൾ അതിനാൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ചില പ്രധാന സംഖ്യകൾ ഓർമ്മിക്കേണ്ടതുണ്ടെങ്കിൽ അവ ഓർമ്മിക്കാൻ പോലും നിങ്ങൾ മെനക്കെടേണ്ടതില്ല കാരണം നിങ്ങൾ അത് സംഭരിക്കുമെന്ന് നിങ്ങൾക്കറിയാം തുടർന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഓർമ്മിക്കാൻ കഴിയും നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്നത് നിർത്തിയോ എന്നതാണ് മറ്റൊരു രസകരമായ ചോദ്യം ചിത്രങ്ങൾ എടുക്കാൻ നിങ്ങൾ മൊബൈൽ മാത്രം ഉപയോഗിക്കുകയും ക്യാമറ ഉപയോഗിക്കുന്നത് നിർത്തുകയും ചെയ്തോ ഇപ്പോൾ നിങ്ങൾ ഇത് ഏറ്റവും ഉയർന്ന ആവൃത്തിയിലാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തുടർന്നും പറയുകയാണെങ്കിൽ ഇല്ല ഇല്ല ഇല്ല എന്ന് പറയുന്നതിനുപകരം ഈ ചോദ്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നു അതിനാൽ നിങ്ങൾ ഇതിനകം ഈ മൊബാർക്കുകൾ മൊബൈൽ ഓർഗനൈസേഷനുകൾ ആയി മാറിയിരിക്കുന്നു മൊബൈൽ നിങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാൻ കഴിയില്ല ഇപ്പോൾ അടുത്ത പ്രധാന കാര്യം നിങ്ങൾ ഒരു അടിമയായിത്തീർന്നോ എന്നതാണ് അതിനാൽ ഇത് വളരെ ഒഴിച്ചുകൂടാനാവാത്തതായി മാറുകയാണെന്ന് ഞാൻ പറയുമ്പോൾ ഇതുവരെ അടിമകളായിട്ടില്ലാത്ത ചിലരുണ്ട് അതിനാൽ അടുത്ത ഘട്ടം ഇത് ഒരു മോശം ശീലമായി മാറിയിരിക്കുന്നു എന്നതാണ് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിക്കാം തുടർന്ന് നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോകുന്ന രീതി നിങ്ങൾ ഒരു അടിമയാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നു ഇപ്പോൾ സമാനമായ ചോദ്യങ്ങൾ പക്ഷേ വ്യത്യസ്ത തീവ്രതയോടെ ഉറങ്ങാൻ പോകുന്നതിനുമുമ്പ് നിങ്ങളുടെ തലയിണയ്ക്ക് സമീപം മൊബൈൽ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങൾ അത് നിങ്ങളുടെ തലയിണയ്ക്ക് താഴെ വയ്ക്കണോ അതോ പോക്കറ്റിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കണോ അതോ നിങ്ങളുടെ അരികിൽ വയ്ക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല ഉറങ്ങുമ്പോൾ സന്ദേശങ്ങൾ പരിശോധിക്കാൻ നിങ്ങൾ ഇടയ്ക്കിടെ എഴുന്നേൽക്കുന്നുണ്ടോ അതിനാൽ നിങ്ങൾ സന്ദേശങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുതരം ഉത്കണ്ഠ ലഭിക്കും അതിനാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾ എഴുന്നേറ്റ് ഈ സന്ദേശങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ ആരെങ്കിലും നിങ്ങളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം അടുത്തതായി മൊബൈലിലെ പ്രവർത്തനങ്ങളോടുള്ള താൽപര്യം കാരണം നിങ്ങൾ നിങ്ങളുടെ ഉറക്ക ദിനചര്യ ഉപേക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ 10 മുതൽ 7 വരെ ഉറങ്ങുന്നുവെന്ന് പറയാം പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ 10 30 എന്ന നമ്പറിൽ വിളിക്കുന്നതിനാൽ അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഉറക്കം ക്രമീകരിച്ചു തുടർന്ന് നിങ്ങൾ ഒരു ഗെയിമിൽ ചേരാൻ സുഹൃത്ത് ആഗ്രഹിച്ചു നിങ്ങൾ ഒരു ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചാറ്റിലാണ് അതിനാൽ ഗെയിമുകൾ കളിക്കുന്ന ദീർഘനേരം ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പോകുകയോ വാട്ട്സ്ആപ്പ് ഉപയോഗിക്കുകയോ ചെയ്തു തുടർന്ന് നിങ്ങൾ ചില സോഷ്യൽ മീഡിയയിൽ ചേരാൻ ആഗ്രഹിച്ചു തുടർന്ന് നിങ്ങൾ വിവരങ്ങൾ പങ്കിടാനും ആളുകളുമായി ചാറ്റ് ചെയ്യുന്നത് ആസ്വദിക്കാനും തുടങ്ങി ഇത് 10 30 ൽ ആരംഭിച്ചു തുടർന്ന് അത് 12 30 ലേക്ക് പോയി എന്ന് പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു വീണ്ടും 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നു തുടർന്ന് അത് 330 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സമയത്തിന്റെ ട്രാക്ക് നഷ്ടപ്പെടുകയും ഏറ്റവും പ്രധാനമായി ഇത് കാരണം നിങ്ങളുടെ ഉറക്ക ദിനചര്യ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ മൊബൈൽ ഇല്ലാതെ നിങ്ങൾക്ക് എത്രനാൾ ജീവിക്കാൻ കഴിയും ഒരു സാങ്കൽപ്പിക സാഹചര്യത്തിൽ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു കോടി രൂപ നൽകിയാൽ അത് ഇല്ലാതെ നിങ്ങൾക്ക് എത്രനാൾ ജീവിക്കാൻ കഴിയും ഇന്ന് ആരെങ്കിലും നിങ്ങൾക്ക് ഒരു കോടി രൂപ നൽകിയാൽ അത് എന്നെന്നേക്കുമായി നിലനിൽക്കുമോ നിങ്ങൾക്ക് അത് എന്നെന്നേക്കുമായി ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നിങ്ങളെത്തന്നെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കാനോ കഴിയുമെന്ന് പറയാനോ കഴിയുമോ 1 വർഷം ചില മാസങ്ങൾ 1 മാസം 15 ദിവസം 10 ദിവസം 3 ദിവസം ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോ കുറച്ച് മിനിറ്റുകളോ മാത്രമാണോ അതോ നിങ്ങളുടെ മൊബൈൽ ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ ഉറക്കെ പറയാൻ പോകുന്നു നിങ്ങളുടെ മൊബൈൽ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ ഇത് പറയാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ ഈ നോമോഫോബിയ ഭയം എന്നിവയാൽ ബുദ്ധിമുട്ടുകയാണ് നോമോഫോബിയ എന്നാൽ ഭയം എന്നാണ് അർത്ഥമാക്കുന്നത് നോമോ എന്നത് മൊബൈൽ ഫോൺ ഫോബിയ ഇല്ലാത്തതിന് ഹ്രസ്വമാണ് അതിനാൽ നിങ്ങൾ ഒരു മിനിറ്റ് നഷ്ടപ്പെടുത്തിയാലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന ഈ ഭയം നിങ്ങൾ അനുഭവിക്കുന്നു അതിനാൽ നിങ്ങളിൽ ഇതിനകം തന്നെ ഒരു അന്തർലീനമായ ഭയം ഉണ്ട് നിങ്ങൾ സ്വയം ഊന്നിപ്പറയുന്നു തുടർന്ന് ഇത് ഒരു അവിഭാജ്യ ഘടകമായി മാറുകയും തുടർന്ന് നിങ്ങൾ അതിൽ ചങ്ങലയിട്ടിരിക്കുന്നതുപോലെയാവുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു മിനിറ്റിനുപോലും അത് വിട്ടുകൊടുക്കുക നെറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ച രസകരമായ രസകരമായ ഉദ്ധരണി നോക്കൂ ഒടുവിൽ ഞാൻ അത് മനസ്സിലാക്കി ആളുകൾ അവരുടെ ഫോണുകളുടെ തടവുകാരാണ് അതിനാലാണ് അവരെ സെൽ ഫോണുകൾ എന്ന് വിളിക്കുന്നത് അതിനാൽ സെൽ എന്ന വാക്കിൽ ഒരു കളിയുണ്ട് അതിനാൽ സെല്ലുലാർ ഫോൺ ഒരേ സമയം സെൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജയിലിൽ പിടിക്കപ്പെടുന്നു എന്നാണ് നിങ്ങൾ ഇതിനകം തന്നെ ആസക്തിയുടെ ഘട്ടത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു ചില ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കാത്തപ്പോൾ പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരിഭ്രാന്തരാകുന്നുണ്ടോ അതിനാൽ ഇത് നിങ്ങളെ പരിഭ്രാന്തരാക്കുകയും നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പേടിസ്വപ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു അതിനാൽ പെട്ടെന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി വൈകി എഴുന്നേൽക്കുന്നു സ്വപ്നത്തിൽ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ മോഷ്ടിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഉടൻ പ്രവർത്തനരഹിതമാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു അതിനാൽ ബാറ്ററി പ്രവർത്തനരഹിതമാകുമെന്നോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കോളുകൾ വിളിക്കാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളുമായി സംസാരിക്കാനും കണക്റ്റ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടോ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭയം ഉണ്ടാക്കുമോ നിങ്ങൾ ഒരു അധിക മൊബൈൽ സ്പെയറായി സൂക്ഷിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ഒരു അധിക മൊബൈൽ മാത്രമല്ല നിങ്ങൾക്കൊപ്പം രണ്ട് മൂന്ന് ഫോണുകൾ സൂക്ഷിക്കുന്നുണ്ടോ ടെക്സ്റ്റിംഗും അമിതമായ ഉപയോഗവും കാരണം നിങ്ങൾക്ക് കണ്ണിന് ബുദ്ധിമുട്ടും കഴുത്ത് പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾ അത് കാര്യമാക്കുന്നില്ല നിങ്ങളുടെ കണ്ണുകൾ ഞെരുക്കത്തിലാണെന്നും നിങ്ങൾ ഒരു സിനിമ കാണുന്നത് നിർത്തണമെന്നും അല്ലെങ്കിൽ തുടർച്ചയായി സന്ദേശമയയ്ക്കണമെന്നും നിങ്ങൾക്കറിയാം പക്ഷേ വേദനയുണ്ടെങ്കിലും അത് നിർത്താൻ കഴിയാത്തതിനാൽ നിങ്ങൾ തുടരുന്നു നിങ്ങൾക്ക് കഴുത്ത് പ്രശ്നങ്ങളുണ്ട് അവർ അതിനെ ടെക്സ്റ്റ് നെക്ക് എന്ന് വിളിക്കുന്നു കാരണം നിങ്ങൾ നിരന്തരം താഴേക്ക് നോക്കുകയും ടെക്സ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നു അതിനാൽ അമിതമായ ഉപയോഗം കാരണം നിങ്ങൾക്ക് ഈ കണ്ണ് സമ്മർദ്ദം ലഭിക്കുന്നു പക്ഷേ നിങ്ങൾ അത് തുടരുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല അതിനാൽ അത് ആസക്തിയുടെ മറ്റൊരു വശത്തെ സൂചിപ്പിക്കുന്നു തുടർന്ന് മൊബൈൽ ഉപയോഗം കാരണം ചെറുതോ വലുതോ ആയ ഒരു വാഹനാപകടം നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ അതിനാൽ നിങ്ങൾ മൊബൈലിലുള്ള കുറച്ച് മിനിറ്റുകൾ പോലെ നിങ്ങൾ നിങ്ങളുടെ കോൾ ശ്രദ്ധിക്കുന്നു കുറച്ച് സെക്കന്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ആരെങ്കിലും ക്രോസ് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു തുടർന്ന് നിങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും തുടർന്ന് നിങ്ങൾ ആരെയെങ്കിലും അടിക്കുകയും ചെയ്തു ബൈക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ടോ അതിനാൽ നിങ്ങൾ ഒരു കൈ ഉപയോഗിക്കുന്നു മറുവശത്ത് നിങ്ങൾ അത് നിങ്ങളുടെ ചെവിയിൽ ഇടുകയും തുടർന്ന് സംസാരിക്കുകയും തുടർന്ന് വാഹനമോടിക്കുന്നത് തുടരുകയും ചെയ്യുന്നു മൊബൈലിലുള്ള നിങ്ങളുടെ തിരക്ക് കാരണം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ സമയം കടന്നുപോകുന്നുവെന്ന് നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ ക്ലാസ് നഷ്ടപ്പെടുന്നു നിങ്ങൾ ഒരു പ്രധാന പ്രഭാഷണം നഷ്ടപ്പെടുത്തുന്നു നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് കളിക്കുന്നതിനാൽ പരീക്ഷ പോലുള്ള ഒരു പ്രധാന ഇവന്റ് നഷ്ടപ്പെടുത്തുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മനശ്ശാസ്ത്രജ്ഞർ പറയുന്നത് നിങ്ങൾക്ക് ഇതിനകം ഈ ഒബ്സസീവ് കംപൽസീവ് ഡിസോർഡർ ഉണ്ടെന്നാണ് അതിനാൽ നിങ്ങൾ ഭ്രാന്തനാണ് നിങ്ങൾ അത് ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നു നിങ്ങൾ ഒട്ടകപ്പക്ഷിയെ പൂർണ്ണമായും ഇഷ്ടപ്പെടുന്നു നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തല മണലിൽ കുഴിച്ചിടുന്നു ഇത് നിങ്ങളുടെ മനസ്സിനെ മുഴുവൻ ചലിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ താൽപ്പര്യങ്ങളും ഈ മൊബൈൽ പ്രവർത്തനങ്ങൾക്കുള്ളിൽ കുഴിച്ചിടുന്നു തുടർന്ന് നിങ്ങൾ യാഥാർത്ഥ്യം കാണുന്നില്ല അതിനാൽ നിങ്ങൾ ഈ ഒബ്സസീവ് കംപൽസീവ് ഡിസോർഡർ അനുഭവിക്കുന്നു നിങ്ങളുടെ ഫോൺ തെറ്റായി സ്ഥാപിക്കുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പരിഭ്രാന്തരാകുന്നു അതിനാൽ നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അതിനാൽ നിങ്ങൾ പരിഭ്രാന്തരാകുന്നുണ്ടോ ഇത് നിങ്ങളുടെ ആസക്തിയുടെ നിലവാരത്തെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ഫോൺ തകരാറിലായാൽ നിങ്ങൾ എത്രമാത്രം പരിഭ്രാന്തരാകുകയും സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു അതിനാൽ പെട്ടെന്ന് അത് പ്രവർത്തനം നിർത്തുന്നു സ്ക്രീനിൽ പ്രദർശനം ഇല്ല അത് ശരിയായി തുറക്കുകയോ വെള്ളത്തിൽ വീഴുകയോ ചെയ്താൽ ചിലപ്പോൾ അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തെന്നി വീഴുകയും പൊട്ടുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് കടുത്ത തലവേദന സമ്മർദ്ദം നൽകുന്നുണ്ടോ തുടർന്ന് ഉടൻ തന്നെ നിങ്ങൾക്ക് ആകാശം താഴേക്ക് പതിച്ചതുപോലെ തോന്നുന്നു തുടർന്ന് നരകം അയഞ്ഞുപോകുന്നു നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ പുനഃസ്ഥാപിക്കുന്നതുവരെ നിങ്ങൾ വളരെയധികം സമ്മർദ്ദത്തിലായിരിക്കുകയും മറ്റ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ആരെങ്കിലും നിങ്ങളുടെ ഫോണിൽ സ്പർശിക്കുകയോ ആരെങ്കിലും സന്ദേശം പരിശോധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്ട്സ്ആപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് ആരെങ്കിലും പരിശോധിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങളുടെ പങ്കാളിയോ നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ ആരെങ്കിലും സ്പർശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ പ്രധാനപ്പെട്ട മീറ്റിംഗുകളിൽ പോലും ഒരു കോൾ എടുക്കുന്നത് നിങ്ങൾക്ക് ചെറുക്കാൻ കഴിയില്ലേ അതിനാൽ വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗുകൾ പക്ഷേ നിങ്ങൾക്ക് കോൾ എടുക്കുന്നത് തടയാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ അത് എടുക്കുന്നു ആളുകൾ നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് നിങ്ങൾ കാര്യമാക്കുന്നില്ല അത് മര്യാദയില്ലാത്തതും മോശവുമാണെന്ന് അവർ കരുതുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ കോളിൽ മുഴുകിയിരിക്കുകയും തുടർന്ന് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു സംവേദനക്ഷമതയും കാണിക്കാതെ മറ്റുള്ളവർക്ക് എന്തു തോന്നും എന്നതിനെക്കുറിച്ച് വിഷമിക്കാതെ നിങ്ങൾ ആ വ്യക്തിയുമായി സംസാരിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾ കോൾ എടുക്കണം നിങ്ങൾ സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ തിരക്കിലായിരിക്കും അതിനാൽ നിങ്ങൾ ഒരു പാർട്ടിയിലാണ് പക്ഷേ നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മൊബൈലിലേക്ക് നോക്കുന്നു തുടർന്ന് നിങ്ങൾ മുന്നിൽ ആരെയും അഭിമുഖീകരിക്കുന്നില്ല നിങ്ങളുടെ മൊബൈൽ ബില്ലുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതിനാൽ നിങ്ങളുടെ ബിൽ എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ അതിനാൽ അത് ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല തുടർന്ന് അത് പ്രാരംഭ 3005008001000 ന് പകരം ഒരു പരിധി കവിയുന്നു അത് 100001500020000 വരെ സൂം ചെയ്യുന്നു നിങ്ങൾ ഡാറ്റ വളരെയധികം ഉപയോഗിക്കുന്നു തുടർന്ന് ഇത് എല്ലായ്പ്പോഴും സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും പോലെയാണ് അതിനാൽ ഇത് നിങ്ങളുടെ നിയന്ത്രണമില്ലാതെ മറ്റെന്തിനെപ്പോലെയും ഉയരുന്നതുപോലെയാണോ ഒടുവിൽ ആളുകളുമായി നേരിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ വെറുക്കുന്നുണ്ടോ പക്ഷേ അവരുമായി മൊബൈലിൽ ചാറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ അതിനാൽ മൊബൈലിൽ നിങ്ങൾക്ക് ഒരേ വ്യക്തിയുമായി എത്ര തവണ വേണമെങ്കിലും അനന്തമായി ചാറ്റ് ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങൾ ഒരേ വ്യക്തിയെ മുഖാമുഖം കാണുമ്പോൾ അതിനാൽ നിങ്ങൾ പിൻവലിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല അതിനാൽ നിങ്ങൾ ഹലോ ഹായ് പറയുകയും നമുക്ക് മൊബൈലിൽ ബന്ധപ്പെടാം എന്ന് പറയുകയും ചെയ്യുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകം ഒരു അടിമയായി അപ്പോൾ നിങ്ങൾ വളരെ ജാഗ്രത പാലിക്കുകയും അതിൽ നിന്ന് പുറത്തുവരികയും വേണം ഈ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവർ എന്ന നിലയിൽ നിങ്ങളുടെ മാനുഷിക വ്യക്തിത്വം നിലനിർത്തേണ്ടത് പ്രധാനമാണ് എന്നിരുന്നാലും പ്രയോജനകരമായ സാങ്കേതികവിദ്യ നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കും പക്ഷേ അതിന്റെ ആഘാതത്തിന്റെ ദോഷകരമായ ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മനുഷ്യരാശിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു സാങ്കേതികവിദ്യ പൂർണ്ണമായും വരുന്നതും നിങ്ങളെ റോബോട്ടുകളെപ്പോലെ പ്രവർത്തിപ്പിക്കുന്നതുമായ മാനുഷിക ഗുണങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ പ്രലോഭനങ്ങളെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് പ്രലോഭനങ്ങളെ ചെറുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഈ പൂർണ്ണമായും സാങ്കേതികമായി ചുറ്റപ്പെട്ട ലോകത്തിൽ എങ്ങനെ മനുഷ്യനാകാം തുടക്കത്തിൽ ഇത് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയുന്നു പക്ഷേ എത്രയും വേഗം അല്ലെങ്കിൽ പിന്നീട് പരിശീലിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഓരോ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ഘട്ടങ്ങൾ തുടർന്ന് ചെറിയ ആവൃത്തിയിൽ ആരംഭിച്ച് ഈ ശീലങ്ങൾ വർദ്ധിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുക ഇവ നല്ല ശീലങ്ങളാണ് ഒരു ദിവസം കുറച്ച് മൊബൈൽ ഫ്രീ സമയം സൂക്ഷിക്കുക 6 മുതൽ 7 വരെ അവർ നിങ്ങളെ വിളിക്കുന്നതിനാൽ നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുമെന്ന് ആളുകൾക്ക് അറിയാം കാരണം ഒന്നുകിൽ നിങ്ങൾ നടക്കുകയാണെന്ന് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ അത് നിങ്ങളുടെ മുഴുവൻ മൊബൈൽ സമയമാണ് ആർക്കും നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിലാണെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിലാണെന്ന് അവർക്കറിയാം നിങ്ങൾ എവിടെയായിരുന്നാലും ക്ലാസ്സിൽ പക്ഷേ ഒരു ദിവസത്തിൽ ഒരു ഒഴിവുസമയമുണ്ടെന്ന് അവർക്കറിയാം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സ്പർശിക്കുന്നില്ല നിങ്ങൾ ഉറങ്ങുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക റേഡിയേഷൻ നിങ്ങൾക്ക് ക്യാൻസർ നൽകുമെന്ന് അവർ പറയുന്നു അതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ സൂക്ഷിക്കുന്നിടത്തെല്ലാം സംഭവിക്കുന്ന അതേ കാര്യം അതിനാൽ സംസാരിക്കുമ്പോൾ ഫോണിൽ നിന്ന് അകലം പാലിക്കാൻ ഞാൻ പോകുന്ന അടുത്ത കാര്യം അതാണ് അതിനാൽ ഇത് നിങ്ങളുടെ ചെവിയിൽ അടയ്ക്കുന്നത് യഥാർത്ഥത്തിൽ റേഡിയേഷൻ നിങ്ങളെ ബാധിക്കും ചെവികൾ നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നു അതിനാൽ സ്പീക്കർ മോഡ് വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക തുടർന്ന് നിങ്ങൾ തിരക്കേറിയ സ്ഥലത്തില്ലെങ്കിൽ അത് കേൾക്കാൻ കഴിയും അത് വളരെ പ്രൈമേറ്റ് സംഭാഷണമല്ലെങ്കിൽ അതിനാൽ വീണ്ടും നിങ്ങൾക്ക് ഒരു നീല പല്ല് ഉപയോഗിക്കാനും എന്നിട്ടും അത് ഫോണിൽ നിന്ന് അകറ്റി നിർത്താനും കഴിയുമെങ്കിൽ അപ്പോഴും അത് നിങ്ങളെ രക്ഷിക്കും അതിനാൽ സംസാരിക്കുമ്പോഴും ഫോൺ നിങ്ങളുടെ ചെവിയിൽ വയ്ക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക ഇത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് കഴിയുന്നത്ര അകലത്തിൽ വയ്ക്കുക അത് നിങ്ങളുടെ പോക്കറ്റിൽ വയ്ക്കരുത് അതിനാൽ നിങ്ങൾക്ക് അത് ഒരു ഹാൻഡ്ബാഗിൽ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത് മൊബൈലിനായി ഒരു ചെറിയ ബാഗിൽ വയ്ക്കാനും അത് നിങ്ങളുടെ പോക്കറ്റിൽ വയ്ക്കുന്നതിനുപകരം കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഹൃദയത്തിന് മുകളിൽ അത് വളരെ മോശമായി ബാധിക്കും ട്രൌസർ പോക്കറ്റുകളിൽ ഇട്ടാലും അത് തുടകളെ ബാധിക്കുന്നുവെന്നും അത് അസ്ഥി അർബുദവും വികിരണം ബാധിക്കുന്ന മറ്റ് കാര്യങ്ങളും നൽകുന്നുവെന്നും ആളുകൾ പറയുന്നു അതിനാൽ നിങ്ങളുടെ ദാസൻ എന്ന നിലയിലും നിങ്ങൾ എന്ന നിലയിലും ഈ മൊബൈൽ ട്രീറ്റിൽ നിന്ന് സ്വയം അകന്നുനിൽക്കാൻ ശ്രമിക്കുക രാജാവാകുക നിങ്ങൾ യജമാനനാകുക പക്ഷേ നിങ്ങളുടെ യജമാനൻ കൈത്തണ്ട ഉപയോഗിക്കുന്നതുപോലെ നിബന്ധനകൾ നിർണ്ണയിക്കാൻ അനുവദിക്കരുത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള കാൽക്കുലേറ്ററുകളും ഉപയോഗിക്കുക മൊബൈൽ എടുക്കുന്നത് ഒഴിവാക്കുക പ്രധാനപ്പെട്ട ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തുന്നതിന് മെമ്മോ പാഡുകൾ ഉപയോഗിക്കുക പ്രധാനപ്പെട്ട കോൺടാക്റ്റ് നമ്പറുകൾ രേഖപ്പെടുത്തുക ഇവയെല്ലാം നിങ്ങൾ ഫോണിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നതുപോലെയല്ല കാരണം നിങ്ങൾ പുറത്തായിരിക്കുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും കാൽക്കുലേറ്റർ കൊണ്ടുപോകേണ്ടതില്ല എന്നാൽ നിങ്ങളുടെ മേശപ്പുറത്ത് കാൽക്കുലേറ്ററും മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിനാൽ നിങ്ങൾ ഇടയ്ക്കിടെ ഇത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ കോളുകളും സന്ദേശങ്ങളും നിങ്ങൾ ആരെ വിളിച്ചാലും സുതാര്യമായി സൂക്ഷിക്കുക അതിനാൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ആരുമുണ്ടെങ്കിലും നിങ്ങളുടെ വാട്ട്സ്ആപ്പിൽ ലിങ്ക് ചെയ്തിട്ടുള്ളവർക്ക് അത് സുതാര്യമാക്കാൻ കഴിയുമോ അതിനാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് കാണാൻ കഴിയുമെന്ന് നിങ്ങളുടെ പങ്കാളിക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ആർക്കും അത് കാണാൻ കഴിയും അപ്പോൾ അത് സുതാര്യമാകുമോ അതിനാൽ ഇത് സുതാര്യമാക്കുന്നത് യഥാർത്ഥത്തിൽ വളരെയധികം സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്നു തുടർന്ന് അത് മോശം സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായും മോചിപ്പിക്കുന്നു ചർച്ചകൾ ഉണ്ടെങ്കിൽ കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ചിലരെ കാണിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ചും നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും കാണാതിരിക്കാൻ നിങ്ങളുടെ മനസ്സ് ബോധപൂർവ്വം ശ്രമിക്കുന്ന എല്ലാ സമയത്തും നിങ്ങൾ മാനസിക സമ്മർദ്ദത്തിലായിരിക്കും പിന്നെ മനുഷ്യനായിരിക്കാനുള്ള അടുത്ത പ്രധാന കാര്യം വാഹനമോടിക്കുമ്പോൾ ഒരിക്കലും മൊബൈൽ കൈയിൽ വയ്ക്കരുത് വീണ്ടും ദൂരം എന്നത് നിങ്ങൾക്ക് അത് അകലത്തിൽ സൂക്ഷിക്കാം കാറിൽ ഒരു സ്പീക്കർ ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ പോലും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ അത് നിർത്താൻ ശ്രമിക്കുകയും തുടർന്ന് കേൾക്കുകയും ഒന്നോ രണ്ടോ മിനിറ്റ് വൈകിയാൽപ്പോലും നിങ്ങൾ തുടരുകയും ചെയ്യുന്നു നിങ്ങൾ തിടുക്കത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നിർത്താൻ കഴിയില്ല അതിനാൽ കോൾ റിംഗ് ചെയ്യുന്നത് തുടരുക അത് പോകട്ടെ നിങ്ങൾ വാഹനമോടിക്കുകയാണെന്ന് മറ്റേയാൾ മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വിളിക്കും മാപ്പുകൾ വഴി വിലാസങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ആ ദിവസങ്ങളിൽ ആളുകളോട് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നുകിൽ മാപ്പുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ആളുകളോട് ചോദിക്കുകയോ ചെയ്തു തുടർന്ന് ഞങ്ങൾ അത് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു അതിനാൽ മനുഷ്യ സമ്പർക്കം കേടുകൂടാതെയിരുന്നു അതിനാൽ ഇപ്പോൾ എല്ലായിടത്തും നിങ്ങൾ ജിപിഎസ് ഉപയോഗിക്കുന്നു എല്ലായ്പ്പോഴും ജിപിഎസ് നിങ്ങളെ കൃത്യമായി ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നില്ല ചിലപ്പോൾ നിങ്ങൾ ഒരു റൌണ്ട്എബൌട്ട് വഴി പോലും എടുക്കുന്നു അത് അടിയന്തിരാവസ്ഥയിൽ പൂർണ്ണമായും അജ്ഞാതമായ സ്ഥലമായിരിക്കുമ്പോൾ അത് തികച്ചും അനിവാര്യമായിരിക്കുമ്പോൾ ഉപയോഗിക്കുക എന്നാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും നിങ്ങൾക്ക് അറിയാവുന്ന അല്പം സ്ഥലങ്ങൾ ഒഴിവാക്കാനും കഴിയുമെങ്കിൽ എന്നാൽ അത് ചെയ്യാൻ ആരോടെങ്കിലും ആവശ്യപ്പെടുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയുന്ന അല്പം അജ്ഞാതമായ വിലാസം അവസാന ഭാഗത്തേക്ക് നിങ്ങൾക്ക് മൊബൈൽ മര്യാദകൾ എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ മര്യാദകൾ യഥാർത്ഥത്തിൽ സാമൂഹിക മാനദണ്ഡങ്ങളാണ് പ്രത്യേകിച്ച് നിങ്ങൾ ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോഴും നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോഴും ശരിയായ പെരുമാറ്റമാണ് അതിനാൽ നിങ്ങൾ മുഖാമുഖം ആശയവിനിമയം നടത്തുമ്പോൾ അടിസ്ഥാനപരമായി പിന്തുടരാൻ കഴിയുന്ന ചില മര്യാദകൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ സാധ്യമായ പരമാവധി മുഖാമുഖം ആശയവിനിമയം ഉപയോഗിക്കുക നിങ്ങൾ ഒരേ കെട്ടിടത്തിലാണെങ്കിൽ അടുത്ത വീട്ടിലോ അതേ ബ്ലോക്കിലോ ഉള്ള ആരെയെങ്കിലും മൊബൈലിൽ വിളിക്കുന്നതിനുപകരം നിങ്ങൾ വേഗത്തിൽ ഡ്രോപ്പ് ഇൻ ചെയ്യാൻ ശ്രമിക്കുക തുടർന്ന് ഇത് ഉപയോഗിക്കുന്നതിനുപകരം ആ വ്യക്തിയുമായി സംസാരിക്കുക ഒരേ ഓഫീസിൽ ഒരേ വീട്ടിലുള്ള ആളുകളെ മൊബൈലിൽ വിളിക്കുന്നത് ഒഴിവാക്കുക അതിനാൽ അത് ഒഴിവാക്കുക അതിനാൽ വളരെ ആവശ്യമുള്ളപ്പോൾ മാത്രം മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തിയുമായി സംസാരിക്കുക ഇപ്പോൾ സാധാരണയായി ഇന്ത്യയിലും ചില ഏഷ്യൻ രാജ്യങ്ങളിലും പോലും മൊബൈൽ സാധ്യമായത്ര അമിതമായി ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഭ്രാന്തൻ പ്രവണതയുണ്ട് പക്ഷേ യൂറോപ്പിലെ സ്ഥലങ്ങളിലും മറ്റെല്ലായിടത്തും നിങ്ങൾ അത്രയധികം ഉപയോഗം കാണുന്നില്ല ഞാൻ റൊമാനിയയിൽ ഒരു കോൺഫറൻസിന് പോയി കോൺഫറൻസ് സംഘാടകയായ ഒരു സ്ത്രീ പങ്കെടുത്തവരോടൊപ്പം ഞങ്ങളെ ഒരു പര്യടനത്തിനായി പുറത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് രാവിലെ 8 മുതൽ വൈകുന്നേരം വരെ 8 ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പോൾ മിക്ക ആളുകളും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടില്ല അതിനാൽ രാത്രിയിൽ 8 മണിക്ക് ഞങ്ങൾ കാണുന്ന സൈറ്റുകളിൽ അവർ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കായി ടാക്സികൾ വാങ്ങാമെന്ന് സംഘാടകർ പറഞ്ഞു തുടർന്ന് ഒരു ടാക്സി എടുക്കാമോ എന്ന് അവർ ചോദിച്ചു നിങ്ങൾ അത് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ആ പ്രദേശത്തിന് ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എനിക്ക് എന്റെ മൊബൈൽ ഉണ്ടായിരുന്നില്ല അതിനാൽ വ്യത്യസ്ത രാജ്യം കാരണം ഞാൻ മറ്റൊരു സിം ഉപയോഗിച്ചില്ല അതിനാൽ അവൾ ഉടൻ തന്നെ ഹാൻഡ്ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തു തുടർന്ന് മൊബൈൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ വളരെ ആശ്ചര്യപ്പെടുകയും അമ്പരക്കുകയും ചെയ്തു കാരണം രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെ 12 മണിക്കൂർ മൊബൈൽ അവളുടെ ഹാൻഡ്ബാഗിൽ ഉണ്ടായിരുന്നു ആളുകളുമായി ചാറ്റ് ചെയ്യുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ ഒരു നിമിഷം പോലും അവൾ അത് എടുത്തില്ല ഞങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ പോയി അല്ലെങ്കിൽ ആർക്കെങ്കിലും സന്ദേശം അയച്ചു പക്ഷേ അടുത്തുള്ള ഫോണുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിച്ച് ഒരു ടാക്സി വിളിക്കേണ്ടത് തികച്ചും ആവശ്യമായിരുന്നു തുടർന്ന് അവൾ അത് പുറത്തെടുത്തു അതിനാൽ അത് തികച്ചും ആവശ്യമുള്ളപ്പോൾ മാത്രമേ നിങ്ങൾ ഇത് ഉപയോഗിക്കാവൂ എന്നും നിങ്ങൾ കഴിയുന്നത്ര ഉപയോഗം കുറയ്ക്കണമെന്നും മനസ്സിലാക്കാൻ ഇത് എനിക്ക് ഒരു നല്ല സൂചകമായിരുന്നു പിന്നെ നിങ്ങളുടെ സമയം ചെലവഴിക്കാൻ വേണ്ടി മാത്രം ആരെയും വിളിക്കരുത് അതിനാൽ മറ്റുള്ളവരുടെ സമയത്തെക്കുറിച്ച് ആശങ്കപ്പെടുക തുടർന്ന് നിങ്ങൾ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ആരെയെങ്കിലും വിളിക്കരുത് തുടർന്ന് മറ്റാരെങ്കിലും എന്തുചെയ്യുമെന്നതിനെക്കുറിച്ച് പൂർണ്ണമായും അശ്രദ്ധരാകരുത് അതുപോലെ ഒരു സന്ദേശത്തിൽ വ്യക്തമാക്കാൻ കഴിയുന്ന നിസ്സാരമായ ഒരു കാര്യം ചോദിക്കാൻ ആരെയും മൊബൈലിൽ വിളിക്കരുത് സമയം എത്രയാണ് എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ വ്യക്തത നൽകുന്നു നിങ്ങൾക്ക് ഒരു വാചക സന്ദേശം അയയ്ക്കാനും വ്യക്തത തേടാനും കഴിയുമെങ്കിൽ അത് മറ്റേയാൾക്ക് വളരെയധികം സമ്മർദ്ദകരമായ നിമിഷങ്ങൾ ഒഴിവാക്കുന്നു പ്രത്യേകിച്ച് മറ്റേയാൾ തിരക്കിലാണെങ്കിൽ ആ വ്യക്തി ഒരു മീറ്റിംഗിലാണെന്ന് നമുക്ക് പറയാം അതിനാൽ നിങ്ങൾ ഒരു ചെറിയ കാര്യത്തിനായി വിളിക്കുകയും അവർ ചൂടേറിയ ചർച്ചയിൽ വളരെ തിരക്കിലായിരിക്കുകയും നിങ്ങളുടെ ഫോൺ ശബ്ദിക്കുകയും ചെയ്യുമ്പോൾ അത് ഇടയ്ക്കിടെ റിംഗ് ചെയ്യുകയും ആ വ്യക്തിയെ വീണ്ടും വീണ്ടും വിളിക്കുകയും ചെയ്യുന്നു അത് യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ അലോസരപ്പെടുത്തുന്നു ചില ആളുകൾ ഒരിക്കൽ മൊബൈലിന് അടിമപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നു അതിനാൽ ഒരു ബീപ്പ് ശബ്ദമോ ശബ്ദമോ ഉടൻ വരുന്ന നിമിഷമാണ് അവർ ഫോണിലേക്ക് ഓടുകയും തുടർന്ന് അവർ അത് എടുക്കുകയും ചെയ്യുന്നു അവിടെ ഒന്നും ഇല്ലെന്ന് അവർ കണ്ടെത്തുകയും അവർക്ക് വളരെ നിരാശ തോന്നുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഇത് ഒരു ചെറിയ വിവരമാണെങ്കിൽ ഒരു വാചക സന്ദേശം ഉപയോഗിക്കുക അവരുടെ തിരക്കേറിയ ഷെഡ്യൂളിൽ വിളിച്ച് ആരുടെയെങ്കിലും സമയം ഹൈജാക്ക് ചെയ്യരുത് നിങ്ങൾക്ക് വിളിക്കേണ്ടി വന്നാൽ ഏറ്റവും അനുയോജ്യമായ സമയം കണ്ടെത്തുകയും തുടർന്ന് വിളിക്കുകയും ചെയ്യുക അതിനാൽ അത് പൂർണ്ണമായും എടുത്തുകളയരുത് എല്ലായ്പ്പോഴും സഹാനുഭൂതിയുള്ളവരായിരിക്കുക തിരക്കുള്ള ആളുകളെ കഴിയുന്നത്ര വിളിക്കുന്നത് ഒഴിവാക്കുക അവരുടെ സമയത്തിന് മൂല്യം നൽകുക ഒരു ടെക്സ്റ്റ് സന്ദേശത്തിനോ ഇമെയിലിനോ മെച്ചപ്പെട്ട ഉദ്ദേശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന മൊബൈൽ കോൾ ഉപയോഗിക്കരുത് ഇന്നത്തെപ്പോലെ കോർപ്പറേറ്റ് ഓഫീസുകളിലും പിന്നീട് ഐഐടികൾ പോലുള്ള സ്ഥലങ്ങളിലും മിക്ക സ്ഥാപനങ്ങളിലും എല്ലാം ഇമെയിലുകളിലൂടെയാണ് ചെയ്യുന്നത് അതിനാൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൽ എവിടെയായിരുന്നാലും ആളുകൾ അവരുടെ മൊബൈൽ ഫോണിൽ ഇമെയിൽ പരിശോധിക്കുന്നു അത് എല്ലായ്പ്പോഴും പരിശോധിക്കുന്നു അതിനാൽ ആ വ്യക്തി ഇടയ്ക്കിടെ ഇമെയിൽ പരിശോധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയുമ്പോൾ ആ വ്യക്തിയെ മൊബൈലിൽ വിളിക്കുന്നതിനുപകരം നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയയ്ക്കാം തുടർന്ന് ആ വ്യക്തിയുടെ സമയം എടുക്കുകയും നിങ്ങളുടെ സമയം ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പോൾ ബിസിനസ് കോളുകളുടെ കാര്യത്തിൽ ആദ്യം ഏറ്റവും അനുയോജ്യമായ സമയം തിരിച്ചറിയുക അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഉപയോഗിച്ച് വരുന്ന വളരെ പ്രധാനപ്പെട്ട കോളുകൾ ഉപയോഗിച്ച് ചിലപ്പോൾ അഭിമുഖങ്ങൾ പോലും നടത്തുന്നു അതിനാൽ നിങ്ങൾക്ക് സന്ദേശം അയയ്ക്കാനും വിളിക്കാനുള്ള ശരിയായ സമയമാണോ എന്ന് ചോദിക്കാനും കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ സമയം ആദ്യം തിരിച്ചറിയുക അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ പോലും വിളിക്കാനുള്ള ശരിയായ സമയമാണോ എന്ന് നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചോദിക്കാം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വിളിക്കാൻ കഴിയില്ലെന്ന് ആ വ്യക്തി പറഞ്ഞാൽ നിങ്ങൾ ഒരു മണിക്കൂറിന് ശേഷം വിളിക്കുകയോ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്യുക നിങ്ങൾ എപ്പോൾ വിളിക്കണം എന്നതുപോലെ അപ്പോയിന്റ്മെന്റ് എടുക്കുക നിങ്ങൾ 2 മിനിറ്റ് മാത്രമേ എടുക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ നുഴഞ്ഞുകയറുകയാണെങ്കിൽ 20 മിനിറ്റ് എടുക്കരുത് അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നത് അന്യായമായ അനാചാരപരമായ പെരുമാറ്റമാണ് ഇത് വളരെ ആക്രമണാത്മകവും സംവേദനക്ഷമതയില്ലാത്തതുമായ പെരുമാറ്റമാണ് അടുത്ത തവണ ആ വ്യക്തി നിങ്ങളുടെ കോൾ എടുക്കാൻ ഇഷ്ടപ്പെടില്ല നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ മാത്രം മിസ്ഡ് കോളുകൾ ഓർമ്മപ്പെടുത്തലുകളായി ഉപയോഗിക്കുക അതിനാൽ ഞാൻ നിങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കില്ലെന്ന് ചില ആളുകൾ എന്റെ വിദ്യാർത്ഥികളോട് പോലും പറയുന്നു അല്ലാത്തപക്ഷം ഞാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കരുത് അതിനാൽ നിങ്ങളോട് ഒരു മിസ്ഡ് കോൾ നൽകാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യരുത് മറ്റേയാൾ തിരികെ വിളിച്ച് നിങ്ങളുടെ പണം ലാഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മിസ്ഡ് കോളുകൾ നൽകരുത് അത് വീണ്ടും മറ്റൊരു മോശം ശീലമാണ് ആരെങ്കിലും നിങ്ങളെ വിളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമയം ലാഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ വിളിക്കുക നിങ്ങൾ വീണ്ടും വിളിക്കുമെന്ന് ആ വ്യക്തിയോട് പറയുകയും നിങ്ങൾ ഒരു കോൾ നൽകുകയും ചെയ്യുന്നു എന്നാൽ ഒരിക്കലും മിസ്ഡ് കോൾ നൽകുകയും മറ്റേയാൾ നിങ്ങളെ വിളിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യരുത് നിങ്ങൾ വീണ്ടും വീണ്ടും വിളിക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക ആ മൊബൈൽ നിങ്ങളുടെ കൈയിലാണ് നിങ്ങൾക്ക് ബട്ടൺ അമർത്താം തുടർന്ന് മറുവശത്തുള്ള മറ്റേയാൾ ഒരു അടിമയെപ്പോലെ നിങ്ങളുടെ അടുത്തേക്ക് ഓടുകയും നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു അത് നിങ്ങൾ അമർത്തുന്ന ജീനി പോലെയാണ് തുടർന്ന് ആ വ്യക്തി വന്ന് നിങ്ങളെ പരിചരിക്കുന്നു അതിനാൽ നിങ്ങൾ വിളിക്കുമ്പോൾ വളരെ ആക്രമണാത്മകവും സ്വയം കേന്ദ്രീകൃതവുമായ പെരുമാറ്റത്തെ ഇത് വീണ്ടും സൂചിപ്പിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയോട് എല്ലാ ആവശ്യങ്ങളും ചോദിക്കുന്നു അങ്ങനെ നിങ്ങൾ മൊബൈലിൽ പോലും കോൾ പൂർത്തിയാക്കുന്നു മറ്റേയാൾ സ്വിച്ച് ഓഫ് ചെയ്താൽ കോൾ തിരികെ നൽകുന്നു തുടർന്ന് നിങ്ങൾക്ക് നഷ്ടമായ കാര്യത്തെക്കുറിച്ച് അറിയാൻ ഉടൻ വിളിക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും മൂന്ന് കോളുകൾ വിളിക്കുന്നു നിങ്ങൾ എന്തോ മറന്നതിനാൽ രണ്ട് മൂന്ന് മിനിറ്റ് ഇടവേളയിൽ നാല് കോളുകൾ ചെയ്തു ഇപ്പോൾ നിങ്ങൾ ഉത്കണ്ഠാകുലരായതിനാൽ മറ്റേ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾ സമ്മർദ്ദത്തിലാണ് അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്നു നിങ്ങൾ മറ്റേ വ്യക്തിയെ വിളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സമ്മർദ്ദം ശമിപ്പിക്കില്ല തുടർന്ന് ഓരോ മിനിറ്റിലും നിങ്ങൾ എന്തെങ്കിലും ഓർമ്മിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആ വ്യക്തിയെ വിളിക്കുന്നു അതിനാൽ നിങ്ങളുടെ സമ്മർദ്ദം നീക്കം ചെയ്യുന്നതിനുമുമ്പ് എല്ലാ പ്രധാന പോയിന്റുകളും രേഖപ്പെടുത്തുകയും തുടർന്ന് നിങ്ങൾ ആ വ്യക്തിയെ വിളിക്കുകയും ചെയ്യുക ബിസിനസ് മീറ്റിംഗുകളിൽ നിങ്ങളുടെ ഫോൺ നിശബ്ദ മോഡിൽ ആയിരിക്കണം അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം അത് റിംഗ് ചെയ്യുമ്പോൾ ഗൌരവമേറിയ ഒരു ചർച്ചയിൽ എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് ദേഷ്യം തോന്നും അതുപോലെ തന്നെ അഭിമുഖ പരീക്ഷാ ഹാളുകളുടെയും മറ്റ് നിയന്ത്രിത മേഖലകളുടെയും കാര്യത്തിലും ആവശ്യമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ കൈവശം വയ്ക്കരുത് അത് സ്വിച്ച് ഓഫ് ചെയ്യണം അതിനാൽ നമ്മുടെ സ്വന്തം ഐ ടികളുടെ ഗേറ്റ് പരീക്ഷകൾ പോലെ പല പരീക്ഷകളിലും ജെ ഇ പരീക്ഷകൾ ഓരോ പരീക്ഷയുടെയും അവസാനത്തിൽ ഓരോ പരീക്ഷയുടെയും അവസാനത്തിൽ കുറഞ്ഞത് നാലോ ആറോ വിദ്യാർത്ഥികളെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്ന് എനിക്കറിയാം നിരവധി പ്രഖ്യാപനങ്ങളും മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നിട്ടും അവരുടെ പോക്കറ്റിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു ആരും ശ്രദ്ധിക്കില്ലെന്ന് അവർ കരുതി പക്ഷേ അത് പൊട്ടിത്തെറിച്ചു അത് ചില കോൾ ചെയ്തു അവർ പിടിക്കപ്പെട്ടു തുടർന്ന് അവരെ അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുകയും പരീക്ഷ അസാധുവായതായും അവരുടെ പരീക്ഷാ അവസരം റദ്ദാക്കിയതായും കണ്ടെത്തി അതിനാൽ അഭിമുഖങ്ങളിൽ പരീക്ഷാ ഹാളുകൾ ഇത് വീണ്ടും അഭിമുഖങ്ങൾ ഉപയോഗിക്കരുത് ഇത് വളരെ വൃത്തികെട്ട സാഹചര്യം സൃഷ്ടിക്കുന്നു അതിനാൽ ഞാൻ മറ്റ് ആളുകളുമായി ഒരു അഭിമുഖത്തിലായിരുന്നു വനിതാ സ്ഥാനാർത്ഥിക്ക് ഒരു കോൾ ലഭിച്ചു അഭിമുഖം എങ്ങനെ പോകുന്നുവെന്ന് അമ്മയോ അമ്മായിയോ മാത്രമാണ് അവളോട് ചോദിക്കുന്നത് അതിനാൽ അഭിമുഖത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തുടങ്ങി അതിനാൽ ഇല്ല എന്ന് അവൾ പറയുകയായിരുന്നു രണ്ട് ചോദ്യങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളോട് വീണ്ടും പറയും എന്താണ് സംഭവിച്ചതെന്ന് വീണ്ടും വിളിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ അവളോട് കോൾ പൂർത്തിയാക്കാൻ പറഞ്ഞു അതിനാൽ അവൾ മുന്നോട്ട് പോയി കോൾ പൂർത്തിയാക്കി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തില്ലെന്ന് നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ അതിനാൽ അഭിമുഖത്തിന്റെയും പരീക്ഷയുടെയും സമയത്ത് നിങ്ങൾ അത് മനസ്സിലാക്കണം അതിനാൽ മൊബൈലിൽ ആരോടെങ്കിലും സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല നിങ്ങൾ മുഖാമുഖം ആശയവിനിമയത്തിലോ ആവശ്യമെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗിലോ ആയിരിക്കുമ്പോൾ ഒരു കോളിൽ പങ്കെടുക്കരുത് എന്നാൽ ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് വളരെയധികം പറയുന്നു അത് വളരെ മാന്യവും ഉചിതവുമാക്കി നിലനിർത്തുന്നു ആരുടെയും വികാരങ്ങളെ പ്രകോപിപ്പിക്കാത്ത വിധത്തിൽ അത് സൂക്ഷിക്കുക അത് ആരുടെയും വികാരങ്ങളെ വേദനിപ്പിക്കുകയോ ബാധിക്കുകയോ ചെയ്യില്ല അവർ അത് കേൾക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് സന്തോഷം തോന്നാൻ അനുവദിക്കുക അത് ഒരു നല്ല സംഗീതമായിരിക്കണമെന്ന് ഒരു നല്ല ആഗ്രഹമായിരിക്കാം പക്ഷേ അത് ആരുടെയും സംവേദനക്ഷമതയെ വ്രണപ്പെടുത്തരുത് അവർ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് പൊതുസ്ഥലങ്ങളിലോ ബസുകളിലോ ഫോണിൽ സംസാരിക്കുന്നത് ഒഴിവാക്കുക അതിനാൽ കഴിയുന്നത്ര മൃദുവായതിനാൽ മറ്റേയാൾ കേൾക്കാതിരിക്കുകയും ഫോണിൽ സംസാരിക്കുന്ന മറ്റൊരാളെ നിങ്ങൾ ശല്യപ്പെടുത്താതിരിക്കുകയും ഒരു പാർട്ടിയിൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തിയുമായി വ്യക്തിപരമായ മുഖാമുഖം ആശയവിനിമയം നടത്തുകയും അല്ലെങ്കിൽ ഔപചാരികമായ ഒരു ബിസിനസ്സ് ബന്ധത്തിൽ പോലും ഞാൻ ഇട്ട കാർട്ടൂൺ നോക്കുകയും വേണം അതിനാൽ പറയുന്ന സ്ത്രീ അവളുടെ കാമുകനോ ഭർത്താവോ ആയിരിക്കാം നിങ്ങൾ അത് കാര്യമാക്കുന്നുണ്ടോ എന്ന് അവൾ പറയുന്നു ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ നോക്കുന്നതിനായി ഞാൻ നിങ്ങളുടെ ഫോൺ നെറ്റിയിൽ കെട്ടിയിടുകയാണെങ്കിൽ അതിനാൽ അവൻ അവളെ നോക്കുകയാണെന്ന് അവൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും അതിനാൽ ഞാൻ നിങ്ങളുടെ ഫോൺ നെറ്റിയിൽ വയ്ക്കുമെന്ന് അവൾ പറയുന്നു അതിനാൽ ഇത് ഈ തലത്തിലെത്തരുത് അവസാനമായി നിങ്ങളുടെ സെൽ ഫോൺ ഇതിനകം തന്നെ നിങ്ങളുടെ ക്യാമറകൾ നിങ്ങളുടെ കലണ്ടർ നിങ്ങളുടെ അലാറം ക്ലോക്ക് നിങ്ങളുടെ വാച്ച് നിങ്ങളുടെ വാക്ക്മാൻ എന്നിവ മാറ്റിസ്ഥാപിച്ചു വാക്ക്മാൻ ഇതിനകം തന്നെ കാലഹരണപ്പെട്ട ഒരു കഷണമായി മാറിയിരിക്കുന്നു പക്ഷേ അത് നിങ്ങളുടെ കുടുംബത്തെയും യഥാർത്ഥ സുഹൃത്തുക്കളെയും മാറ്റിസ്ഥാപിക്കാൻ അനുവദിക്കരുത് ആത്യന്തികമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ബോസ് നിങ്ങളുടെ കുടുംബം സുഹൃത്തുക്കൾ നിങ്ങളുടെ സഹപ്രവർത്തകർ എന്നിവരുടെ പ്രിയപ്പെട്ട പട്ടികയിൽ ഒന്നാമതായിരിക്കട്ടെ ഒരിക്കലും ബ്ലോക്ക് ചെയ്ത പട്ടികയിൽ ഒന്നാമതായിരിക്കരുത് ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫലപ്രദമായി ഉപയോഗിക്കുമെന്നും അതിന്റെ അനാവശ്യ ഉപയോഗം കുറയ്ക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സമ്മർദ്ദം മറ്റൊരാളുടെ സമ്മർദ്ദവും കുറയ്ക്കുന്നു